ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ സംഗ്രഹിക്കാം വൈദ്യുത കാന്തിക മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണെന്ന് നോക്കാം ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഗോസിന്റെ നിയമത്തെ തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡൈവർജൻസ് rho ഓവർ എപ്സിലോൺ 0 ആയിരിക്കും ഇവിടെ rho എന്നാൽ വൈദ്യുത ചാർജ് സാന്ദ്രതയാണ് പിന്നീട് കേൾ E എന്നാൽ മാറുന്ന കാന്തിക മണ്ഡലം ആണെന്ന ഫാരഡെയുടെ നിയമം നമ്മൾ പഠിച്ചു ചാർജ് വിതരണത്തിൽ നിന്ന് E യുടെ കേൾ 0 ആകുന്നുവെന്നത് ഓർക്കുക മൂന്നാമതായി നമ്മൾ പഠിച്ചത് ശൂന്യതയിൽ ഒരു മാധ്യമവും ഇല്ലാത്ത അവസ്ഥയിൽ B യുടെ കേൾ mu 0 J ക്ക് തുല്യമായിരിക്കും എന്ന ബയോ സവാർട്ട് നിയമമാണ് ഒടുവിൽ B യുടെ ഡൈവർജൻസ് 0 ആണെന്ന് ഞങ്ങൾ പഠിച്ചു ഇത് മാഗ്നറ്റിക് മോണോപോളുകൾ ഇല്ല എന്നും ഒരു കാന്തികക്ഷേത്രം എല്ലായ്പ്പോഴും ഒരു ഡൈപോൾ പോലെ പ്രവർത്തിക്കുന്ന ഒരു കറൻറ് ലൂപ്പിൽ നിന്ന് പുറത്തുവരുന്നു എന്നും നമ്മൾ കണ്ടു കാന്തികക്ഷേത്രത്തിനായുള്ള ഗോസിന്റെ നിയമമായി നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഈ നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നമുക്ക് രണ്ടും മൂന്നും സമവാക്യങ്ങൾ താരതമ്യം ചെയ്യാം അതിനാൽ നമുക്ക് രണ്ട് മൂന്ന് സമവാക്യങ്ങൾ ഇരുവശങ്ങളിലായി എഴുതാം നിങ്ങൾക്ക് കേൾ E എന്നാൽ മൈനസ് d B by dt ഉം കേൾ B എന്നാൽ mu 0 J ആണെന്നും അറിയാം ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലത്തിൽ നിന്നാണ് വൈദ്യുത മണ്ഡലം ഉണ്ടാകുന്നതെന്ന് കാണാം എന്നാൽ അടിസ്ഥാനപരമായി ഒരു കറൻറ് പദവും ഇവിടെ ഇല്ല ഇവിടെ മാഗ്നറ്റിക് കറന്റ് ഇല്ല മാഗ്നറ്റിക് മോണോപോളും ഫ്രീ മാഗ്നറ്റിക് ചാർജും ഇല്ല അതിനാൽ കറന്റ് ഇല്ല അതിനാൽ കറന്റിൽ നിന്ന് ഒന്നും തന്നെ വരുന്നില്ല മറുവശത്ത് കേൾ B യുടെ സമവാക്യത്തിൽ നിന്ന് എനിക്ക് ഒരു വൈദ്യുത പ്രവാഹത്തിൽ നിന്ന് പുറത്തുവരുന്ന കാന്തിക മണ്ഡലം ഉണ്ട് എന്നിരുന്നാലും എനിക്ക് സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു വൈദ്യുത മണ്ഡലം ഉണ്ട് ഇവിടെ അസമമിതിയായ കാന്തികക്ഷേത്രത്തിന് കാരണമാകുന്ന മറ്റൊരു പദം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ കാന്തികധ്രുവങ്ങളില്ലാത്തതിനാൽ കേൾ E യുടെ സമവാക്യത്തിൽ എനിക്ക് ഒരു വൈദ്യുതധാരയുടെ അഭാവം വിശദീകരിക്കാൻ കഴിയും എന്നാൽ ഒരു d E d t എന്ന പദം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ ഒരു കാരണവുമില്ല ഇത് യഥാർത്ഥത്തിൽ നിലനിൽക്കേണ്ടതാണെന്ന് നമുക്ക് ഇപ്പോൾ കാണാം ഇത് ഡിസ്പ്ലേമെന്റ് കറന്റ് എന്നറിയപ്പെടുന്നു ഇത് മാക്സ്വെൽ അവതരിപ്പിച്ചതാണ് അത് വൈദ്യുതകാന്തിക മണ്ഡലത്തെ വിവരിക്കുന്ന സമവാക്യങ്ങളെ മുഴുവൻ പൂർത്തിയാക്കും അതിനാൽ സ്ഥിരമായ വൈദ്യുത പ്രവാഹങ്ങൾക്കായി നമുക്ക് ബയോ സവാർട്ട് നിയമത്തിൽ നിന്ന് ആരംഭിക്കാം സ്ഥിരമായ വൈദ്യുത പ്രവാഹങ്ങൾ എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് ഇവ സമയത്തിനനുസരിച്ച് മാറുന്നില്ല എന്നാണ് ഇതിനർത്ഥം വൈദ്യുത സാന്ദ്രതയുടെ ഡൈവർ ജൻസ് 0 ആയിരിക്കും കേൾ B എന്നാൽ mu 0 j ക്ക് തുല്യമാണെന്ന് ഫോർമുല എനിക്ക് നൽകി നിങ്ങൾ ആ പ്രഭാഷണത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ സൂത്രവാക്യം കണ്ടുപിടിക്കുന്ന വഴികളിൽ ഡെൽ ഡോട്ട് j ക്ക് ആനുപാതികമായ ഒരു പദം ഉണ്ടായിരുന്നതായി നമ്മൾ ശ്രദ്ധിച്ചു ഇത് സ്ഥിരതയുള്ള കറന്റ് കാരണം 0 ആണെന്ന് നമ്മൾ പറഞ്ഞു ആ പദം 0 ശരിയല്ലെങ്കിൽ എന്തുചെയ്യും അതിനാൽ ഡെൽ ഡോട്ട് j 0 ന് തുല്യമല്ലെങ്കിൽ അത് മൈനസ് d rho by d t ക്ക് തുല്യമായിരിക്കും അവിടെ rho ചാർജ് സാന്ദ്രതയാണ് ഈ പദം ഗോസ് നിയമം ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് മൈനസ് d by d t എപ്സിലോൺ 0 ഡെൽ ഡോട്ട് E എന്ന് ലഭിക്കും അതിനാൽ ഞാൻ കേൾ B എടുക്കുകയാണെങ്കിൽ വലതുവശത്ത് ഇതിനു സമാനമായ ഒരു പദം എനിക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ കറൻറ് സ്ഥിരതയുള്ളതായി എടുക്കരുത് മറ്റൊരു രീതിയിൽ ഇത് എങ്ങനെ വരുന്നുവെന്ന് നമുക്ക് നോക്കാം ഇത് തികച്ചും ഗണിതശാസ്ത്രപരമായിരിക്കും ഞാൻ കേൾ B യുടെ mu 0 j ക്ക് തുല്യമായ ഈ സമവാക്യത്തിൽ ഇരുവശങ്ങളിലും ഡൈവർജൻസ് എടുക്കുകയാണെങ്കിൽ ഡൈവർജൻസ് ഓഫ് കേൾ B എന്നത് mu 0 ഡൈവർജൻസ് j എന്ന് ലഭിക്കും ഇപ്പോൾ ഗണിതശാസ്ത്രപരമായി ഡൈവർജൻസ് ഓഫ് കേൾ B എല്ലായ്പ്പോഴും 0 ആണ് അതിനാൽ ഈ പദം ഇടത് വശത്ത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും മറുവശത്ത് rho അല്ലെങ്കിൽ ചാർജ് സാന്ദ്രത സമയത്തെ ആശ്രയിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വലത് വശത്ത് മൈനസ് mu 0 d rho by d t ആയിരിക്കും ഇത് നമ്മൾ മുൻപ് കണ്ടതാണ് വലതുവശം പൂജ്യം അല്ലാത്തതിനാൽ ഈ സമവാക്യത്തിൽ ഒരു ചേർച്ചയില്ലായ്മ ഉണ്ട് ആ ചേർച്ചയില്ലായ്മ നമ്മൾ എങ്ങനെ നീക്കംചെയ്യും അതിനാൽ നമുക്ക് ഡെൽ ക്രോസ് B എന്നത് mu 0 j ക്ക് തുല്യമായി എഴുതാം വലതുവശത്ത് മറ്റൊരു വെക്റ്റർ v കൂടി ചേർക്കാം എന്തെന്നാൽ ഞാൻ ഇരുവശത്തും ഡൈവർജൻസ് എടുക്കുമ്പോൾ ഉത്തരം ഇരുവശത്തും 0 ആയിരിക്കണം അതിനാൽ ഗണിതശാസ്ത്രപരമായി ഡൈവർജൻസ് ഓഫ് കേൾ B എല്ലായ്പ്പോഴും 0 ആയിരിക്കും അത് mu 0 ഡൈവർജൻസ് j പ്ലസ് ഡൈവർജൻസ് v എന്നതിന് തുല്യമാണ് ഇതിനെ mu 0 മൈനസ് d rho by dt പ്ലസ് ഡൈവർജൻസ് v എന്ന് എഴുതാവുന്നതാണ് ഡൈവർജൻസ് E എന്നാൽ rho ഓവർ എപ്സിലോൺ 0 എന്ന സമവാക്യം ഉപയോഗിച്ച് അതിനെ മൈനസ് mu 0 എപ്സിലോൺ 0 d by d t ഡൈവർജൻസ് E പ്ലസ് ഡൈവർജൻസ് v എന്ന് എഴുതാം ഇതിൽനിന്നെല്ലാം നമുക്ക് ഡൈവർജൻസ് ഓഫ് v മൈനസ് എപ്സിലോൺ 0 mu 0 d E by d t എന്നത് പൂജ്യമായി ലഭിക്കുന്നു അതിനാൽ v എന്നതിനെ എപ്സിലോൺ 0 mu 0 d E by d t ആയി എഴുതാം അപ്പോൾ കേൾ B യുടെ ശരിയായ ഉത്തരം എന്തെന്നാൽ mu 0 j പ്ലസ് mu 0 എപ്സിലോൺ 0 d E by d t ക്ക് തുല്യമായിരിക്കും നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ അധിക പദം എപ്സിലോൺ 0 d E by d t എന്നത് സ്ഥാനചലന കറന്റ് അഥവാ ഡിസ്പ്ലേസ്മെൻറ് കറൻറ് എന്നറിയപ്പെടുന്നു കാരണം ഇത് ഡിസ്പ്ലേസ്മെന്റ് D എന്ന അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സ്വതന്ത്ര സ്ഥലത്ത് epsilon 0 E ആണ് അതിനാൽ നമുക്ക് ഈ സമവാക്യങ്ങളെല്ലാം വീണ്ടും എഴുതാം അതിനാൽ ഇലക്ട്രിക് ഫീൽഡിൽ ഗോസിൻറെ നിയമപ്രകാരം ഡൈവേർജൻസ് E എന്നാൽ rho ഓവർ എപ്സിലോൺ 0 എന്നതിനു തുല്യമാണ് കേൾ E എന്നാൽ വീണ്ടും മൈനസ് dB by dt ക്ക് തുല്യമാകുന്നു ഈ കേൾ B യുടെ സമവാക്യത്തിലെ മൈനസ് ചിഹ്നം സമയം മാറുന്നതിനനുസരിച്ചോ അല്ലാതെയോ ഇലക്ട്രോസ്റ്റാറ്റിക് മാഗ്നെറ്റോസ്റ്റാറ്റിക് എന്നിങ്ങനെ എല്ലാം ഈ നാല് സമവാക്യങ്ങളാൽ വിവരിച്ചിരിക്കുന്നു അതിനാൽ മുഴുവൻ ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സും ഈ നാല് സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നിരുന്നാലും ഈ പ്രഭാഷണത്തിൽ നമ്മുടെ ശ്രദ്ധ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്ലേക്കാണ് പോകുന്നത് കാരണം ഇത് മനസിലാക്കാനും അതിന്റെ ഫലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഡിസ്പ്ലേസ്മെന്റ് കറൻറും അതിന്റെ ഫലവും കാണാനായി കൂടുതലായും എടുക്കുന്ന ഒരു ഉദാഹരണമാണ് ഒരു കറന്റ് I വഹിക്കുന്ന വയർ കണക്ട് ചെയ്ത ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നു സമയത്തിനനുസരിച്ച് വൈദ്യുതധാര മാറുകയാണെങ്കിൽ ഉപരിതലത്തിൽ കൊണ്ടുവരുന്ന സിഗ്മ എന്ന ചാർജും മാറും അതിനാൽ അതു സംഭവിക്കുമ്പോൾ സിഗ്മ അല്ലെങ്കിൽ പ്ലേറ്റുകളിലെ ഉപരിതല ചാർജും മാറുന്നു അതായത് പ്ലേറ്റുകൾക്കിടയിലുള്ള വൈദ്യുത മണ്ഡലവും മാറുന്നു ഇപ്പോൾ I സമയത്തിന്റെ ഫംഗ്ഷനാണെങ്കിൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ ഇവിടെ ഈ വൈദ്യുത മണ്ഡലവും സമയത്തിന്റെ ഫംഗ്ഷനായി മാറുന്നു ഇതിനർത്ഥം സമയത്തെ സംബന്ധിച്ച് E യുടെ ഭാഗിക ഡെറിവേറ്റീവ് 0 ആയിരിക്കുകയില്ല എന്നാണ് പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ട് അതിൻറെ ഫലം അവിടെ ഉണ്ടായിരിക്കും കാരണം ഭൌതിക കറന്റ് ഇല്ലെങ്കിലും കേൾ B എന്നാൽ mu 0 എപ്സിലോൺ 0 d E by dt ഉം പ്ലേറ്റുകൾക്കിടയിലുള്ള B യുടെ കേൾ 0 ആകുന്നില്ല B യുടെ കേൾ 0 ആകുന്നില്ല എന്നാൽ പ്ലേറ്റുകൾക്കിടയിൽ പോലും ചില കാന്തികക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു സാധാരണയായി നിങ്ങൾ അത് പ്രതീക്ഷിക്കില്ല നമുക്ക് ഈ അളവുകൾ കണക്കാക്കാവുന്നതാണ് അതിനാൽ ലളിതമാക്കാൻ നമുക്ക് ഈ പ്ലേറ്റ് വൃത്താകൃതിയിലാക്കാം അതിനാൽ ഇവിടെ ഒരു വൃത്താകൃതിയിലുള്ള പ്ലേറ്റ് ഉണ്ട് ഇവിടെയാണ് മറ്റ് വൃത്താകൃതിയിലുള്ള പ്ലേറ്റ് കറന്റ് I t വരുന്നു അത് പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു എളുപ്പത്തിനായി ഇവിടെ കറന്റ് ഒഴുകുന്ന സമയത്തെ നമ്മൾ അവഗണിക്കും അതിനാൽ ചാർജ് ഒഴുകുമ്പോൾ അതിന്റെ പ്ലേറ്റിലുടനീളം അത് തുല്യമായി വിഭജിക്കപ്പെടുമെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ I t എന്നതിനെ ഞാൻ d q by d t ആണെന്നും അത് പ്ലേറ്റിന്റെ വിസ്തീർണ്ണം A തവണ d സിഗ്മ by d t ആണെന്നും എഴുതാം അപ്പോൾ d സിഗ്മ by dt എന്നത് i t ഓവർ A എന്ന് എഴുതാം ഡൈവർജൻസ് E എന്നാൽ rho ഓവർ എപ്സിലോൺ 0 ആയിരിക്കുന്ന ഈ ചലനാത്മക സാഹചര്യത്തിൽ പോലും പ്ലേറ്റുകൾക്കിടയിലുള്ള E എന്നത് സിഗ്മ ഓവർ ഇപ്സിലോൺ 0 ആണെന്ന് ഗോസിന്റെ നിയമത്തിൽ നിന്നും എനിക്കറിയാം അതിനാൽ d E by d t യൂണിഫോമാണ് അതിനാൽ ഒരു ഭാഗിക ഡെറിവേറ്റീവ് എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ വേവലാതിപ്പെടുന്നില്ല E ഇവിടെ ഏകീകൃതമാണ് ഇത് 1 ഓവർ എപ്സിലോൺ 0 d സിഗ്മ by dt ആണ് ഇത് I t ഓവർ A എപ്സിലോൺ 0 ക്ക് തുല്യമാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി jd ഇത് ഒരു വെക്റ്ററാണ് എന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ദിശയിലുള്ള അതിൻറെ മൂല്യം എപ്സിലോൺ 0 d E by d t അതായത് I t ഓവർ A അതൊരു ഡിസ്പ്ലേസ്മെൻറ് കറൻറ് ആണ് അതിനാൽ വരുന്ന ഈ വൈദ്യുതധാര ഈ പ്രദേശത്ത് വ്യാപിച്ചതുപോലെയാണ് തുടർന്ന് അത് കടന്നുപോകുന്നത് പോലെയാണ് അതിനാൽ ഓരോ യൂണിറ്റ് ഏരിയയിലും ഉള്ള കറൻറ് I t ഓവർ a ആയി മാറുന്നു ഈ ഡിസ്പ്ലേസ്മെൻറ് കറൻറ് കാരണം ഒരു കാന്തികക്ഷേത്രം ഉണ്ടാകും അതിനാൽ മാഗ്നെറ്റിക് ഫീൽഡ് സമവാക്യം കേൾ B എന്നാൽ mu 0 എപ്സിലോൺ 0 d E by d t അല്ലെങ്കിൽ mu 0 j d ക്ക് തുല്യമാണ് ഇത് കൃത്യമായി ഒരു സാധാരണ വൈദ്യുതധാര മൂലമുള്ള സമവാക്യമാണ് അതിനാൽ ഇവിടെ ഫീൽഡ് B ഇതുപോലെ വൃത്താകൃതിയിൽ ആകുന്നു അതിൻറെ ദിശ മുകൾഭാഗത്ത് പേപ്പറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു താഴെ പേപ്പറിലേക്ക് പോകുന്നു അങ്ങനെ ഈ B ഫീൽഡ് ഉൽപ്പാദിപ്പിക്കുന്നു അതിനാൽ വൈദ്യുത മണ്ഡലം മാറുന്നത് പ്ലേറ്റുകൾക്കിടയിലും പുറത്തും ഒരു കാന്തികക്ഷേത്രത്തിന് കാരണമാകും അതാണ് ഡിസ്പ്ലേസ്മെൻറ് കറൻറ് ൻറെ പ്രഭാവം